നാം കുറച്ചു ഉദാഹരണങ്ങൾ കണ്ടു ഇനിയും ഒന്ന് രണ്ടെണ്ണം നോക്കുന്നതാണ് നമുക്ക് എക്സാമ്പിൾ 1 9 ഇപ്പോൾ നോക്കാം ഒരു 200 വാട്ട് ഇലക്ട്രിക്ക് ലാമ്പ് 2 മണിക്കൂറിൽ എത്ര എനർജി ആണ് ഉപയോഗിക്കുന്നത് എനർജി പ്രതിപാദിക്കുന്നത് p t എന്നാണ് അടിസ്ഥാനപരമായി ഇത് വാട്ട് അവർ ആണ് അതിനാൽ ഇത് പവർ പിന്നെ ഇത് ടൈം അതായതു 200 വാട്ട് എന്നത് 2 മണിക്കൂർ നേരത്തേക്ക് അത് 400 വാട്ട് അവർ ആണ് നമുക്കറിയാം ജൂൾ പേർ സെക്കന്റ് എന്നത് വാട്ട് ആണ് എന്തെന്നാൽ നമുക്കറിയാം p dwdt w എന്നത് ചെയ്ത വർക്ക് ആണ് അത് ജൂൾ ൽ ആണ് അതിനാൽ ഇത് ജൂൾ പേർ സെക്കന്റ് ആണ് അതിനാൽ 1 മണിക്കൂർ എന്നത് 60 60 അതായത് 3600 സെക്കന്റ് ആണ് അതിനാൽ ഇത് 200 2 അതുകൊണ്ട് 400 1 മണിക്കൂർ ഇത് മണിക്കൂർ ആണ് ഒരു മണിക്കൂർ എന്നത് 60 60 അപ്പോൾ അത്രയും ജൂൾ അതായതു 720000 ജൂൾ അപ്പോൾ അത് 720 കിലോ ജൂൾ നമുക്കറിയാം ജൂൾ പേർ സെക്കന്റ് എന്നത് വാട്ട് ആണ് ഇനി അത് വാട്ട് സെക്കന്റ് ആക്കണം നമുക്കറിയാം 1 മണിക്കൂർ എന്നത് 60 60 ആണ് അതായതു 3600 സെക്കന്റ് ഇനി അതിനെ 200 400 വച്ച് മൾട്ടിപ്ലൈ ചെയ്യുക ഇത്രയും വാട്ട് സെക്കന്റ് ആണ് എന്തെന്നാൽ വാട്ട് എന്നത് ജൂൾ പേർ സെക്കന്റ് ആണല്ലോ അപ്പോൾ ജൂൾ എന്നത് വാട്ട് സെക്കന്റ് ആണ് അപ്പോൾ നമ്മുടെ ഉത്തരം 720 കിലോ ജൂൾ ഇത് ഒരു ചെറിയ ഉദാഹരണം ആണ് ഇനി മറ്റൊരെണ്ണം നോക്കാം ഇവിടെ നാം എപ്പോഴെല്ലാം സമയം പ്രതിപാദിക്കുമോ അപ്പോഴെല്ലാം ഓർക്കേണ്ടത് നാം പറയുക DC സർക്യൂട് ആയിരിക്കും എന്നാൽ നാം പിന്നീട് സിംഗിൾ ഫേസ് ac യും ഒപ്പം 3 ഫേസ് ac യും പഠിക്കുമോ അപ്പോൾ കൂടുതൽ വിശദീകരണ൦ ലഭിക്കുന്നതാണ് ഇപ്പോൾ ചെറിയ രീതിയിൽ ഐഡിയ ലഭിക്കുന്നതാണ് ഇപ്പോൾ മറ്റൊരു ഉദാഹരണം നോക്കുക ഫിഗർ 1 12 ൽ കാണിച്ചിരിക്കുന്ന വോൾടേജ് സോഴ്സ് ന്റെ പവർ നു ഒരു എക്സ്പ്രെഷൻ നിർമിക്കുക ടൈം 0 മുതൽ ഇൻഫിനിറ്റി വരെ എനർജി യും കണക്കു കൂട്ടുക ഇതാണ് ഈ ഫിഗർ ലെ സർക്യൂട് എലമെന്റ് ഇത് വോൾടേജ് സോഴ്സ് ഇതിലെ കറന്റ് i എന്നത് 2 e യുടെ പവർ t ആമ്പിയർ ഇതാണ് കറന്റ് i 2 അതോടൊപ്പം ടൈം ചേർന്നാൽ അത് 2 e t ആമ്പിയർ ആയി വോൾടേജ് v എന്നത് 12 വോൾട് ചോദ്യം എന്നത് ഇവിടെ കറന്റ് പ്രവേശിക്കുന്നത് വോൾടേജ് ന്റെ പോസിറ്റീവ് ടെർമിനൽ ൽ ആണോ നമുക്ക് പക്ഷെ വേണ്ടത് പവർ ന്റെ എക്സ്പ്രെഷൻ ആണ് അതായതു p v i കറന്റ് എന്നത് പോസിറ്റീവ് ടെർമിനൽ ആണ് പ്രവേശിക്കുന്നത് ഇവിടെ v 12 വോൾട് ആണ് പിന്നെ i 2 e t ആമ്പിയർ ഉം ആണ് അത് 122 e t അപ്പോൾ 24 e t എന്ന് കിട്ടും ഇതൊരു ടൈം ഫങ്ക്ഷൻ ആണ് ac യിൽ നാം ഇത് നോക്കുന്നതാണ് എനർജി മാറ്റത്തിന്റെ എക്സ്പ്രെഷൻ എന്നത് നമുക്കു കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സമയം 0 മുതൽ ഇൻഫിനിറ്റി വരെ ആണ് അതായതു എനർജി മാറ്റം എന്നത് ലിമിറ്റ് 0 റ്റു ഇൻഫിനിറ്റി pdt ആണ് p എന്നത് പവർ ആണ് പിന്നെ t ടൈം അപ്പോൾ ഉത്തരം ജൂൾ ൽ ആയിരിക്കും അപ്പോൾ അത് 0 റ്റു ഇൻഫിനിറ്റി 24 e tdt ആണ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക അത് 24 e t0 ഇതിൽ t 0 മുതൽ ഇൻഫിനിറ്റി വരെ കൊടുക്കുക ഉത്തരം 24 ജൂൾ ആണ് എനർജി മാറ്റത്തിന്റെ എക്സ്പ്രെഷൻ എന്നത് 24 ജൂൾ ആണ് ഇത് ലളിതം ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ പതുക്കെ നിങ്ങൾ എല്ലാം മനസ്സിലാക്കേണ്ടതാകുന്നു ഇനി ആക്റ്റീവ് പിന്നെ പാസ്സീവ് സർക്യൂട് എലെമെന്റുകൾ ഒരു ഇലക്ട്രിക്ക് സർക്യൂട് എന്നത് എലെമെന്റുകളുടെ പരസ്പര കണക്ഷൻ ആണ് ഇത് നാം മുമ്പ് ചർച്ച ചെയ്ത കാര്യമാണ് സർക്യൂട് അനാലിസിസ് എന്നത് എലെമെന്റിന്റെ വോൾടേജ് കറന്റ് എന്നിവ കണ്ടെത്തുക എന്നതാണ് ഒന്നുകിൽ വോൾടേജ് അല്ലെങ്കിൽ കറന്റ് അടിസ്ഥാനപരമായി രണ്ടു തരത്തിൽ ആണ് എലെമെന്റുകൾ ഉള്ളത് ആക്റ്റീവ് എലമെന്റ് അല്ലെങ്കിൽ പാസ്സീവ് എലമെന്റ് ആക്റ്റീവ് എലെമെന്റുകൾ എന്നത് വേണമെങ്കിൽ പാസ്സീവ് അല്ലാത്ത എലെമെന്റുകൾ എന്ന് പറയാം നേരെമറിച്ചു പാസ്സീവ് എന്നത് ആക്റ്റീവ് അല്ലാത്തത് എന്നും പറയാം ഇത് എനർജി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പറയുക ഒരു സർക്യൂട് എലമെന്റ് r എന്നത് പാസ്സീവ് ആകണമെങ്കിൽ ആ എലെമെന്റിലേക്ക് മറ്റു സർക്യൂട് എലമെന്റ് കൊടുക്കുന്ന അകെ എനർജി എന്നത് നെഗറ്റീവ് അകാൻ പാടില്ല ഞാൻ അർത്ഥമാക്കുന്നത് അത് 0 ആകാം അല്ലെങ്കിൽ പോസിറ്റീവ് അതുകൊണ്ടു ഒരു സർക്യൂട് എലമെന്റ് r എന്നത് പാസ്സീവ് ആകണമെങ്കിൽ അതിലേക്കു നൽകുന്ന ആകെ എനർജി എന്നത് നെഗറ്റീവ് അകാൻ പാടില്ല അപ്പോൾ സമയം 0 ആകുമ്പോൾ ഈ എലെമെന്റിലേക്കു പവർ കൊടുത്തു എന്ന് കരുതുക എനർജി എന്നത് 0 റ്റു t p dt ആണ് ഇവിടെ p എന്നത് പവർ ആണ് വാട്ട് ൽ പിന്നെ t എന്നത് ടൈം അത് സെക്കന്റ് ൽ എനർജി എന്നത് ജൂൾ ൽ ഇനി tt0 ആകുമ്പോൾ p vi ആണ് ഇത് മാത്തമറ്റിക്കൽ ആയി പറയുമ്പോൾ ഇങ്ങനെ ആകാം ടൈം t 0 റ്റു t vidt അത് ഇപ്പോഴും 0 അല്ലെങ്കിൽ അതിനു മുകളിൽ ആയിരിക്കും അങ്ങനെയെങ്കിൽ ഇത് പാസ്സീവ് എലമെന്റ് ആണ് നമുക്കറിയാം ഒരു ആക്റ്റീവ് എലമെന്റ് എന്നത് പാസ്സീവ് അല്ലാത്തത് എമ്മാർത്ഥമുണ്ട് ഇത് ഇക്വേഷൻ 1 1 ആദ്യത്തേത് ഇക്വേഷൻ 1 ഇത് എല്ലായ്പോഴും സത്യമാകണമെന്നില്ല ആക്റ്റീവ് എലമെന്റ് എന്നതിന് എനർജി നിർമിക്കാൻ കഴിവുണ്ട് എന്നാൽ പാസ്സീവ് എലെമെന്റ് എന്നതിന് ഇതിനുള്ള കഴിവില്ല പാസ്സീവ് എലെമെന്റുകളുടെ ഉദാഹരണങ്ങളാണ് റെസിസ്റ്റർ ഇണ്ടക്ടർ പിന്നെ കപ്പാസിറ്റർ ആക്റ്റീവ് എലെമെന്റുനു ഉദാഹരണമാണ് ജനറേറ്റർ ബാറ്ററി പിന്നെ ഓപ്പറേഷനൽ ആംപ്ലിഫൈർ ഇത് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ ആണ് അപ്പോൾ പാസ്സീവ് എലെമെന്റുകൾ ആണ് റെസിസ്റ്റർ ഇണ്ടക്ടർ പിന്നെ കപ്പാസിറ്റർ പിന്നെ ആക്റ്റീവ് എലെമെന്റുകൾ ആണ് ജനറേറ്റർ ബാറ്ററി പിന്നെ ഓപ്പറേഷനൽ ആംപ്ലിഫൈർ ഈ ഭാഗത്തായി നിങ്ങൾ പ്രധാനപ്പെട്ട ആക്റ്റീവ് എലെമെന്റുകൾ ഏതൊക്കെ എന്ന് പഠിക്കും ഇവിടെ ഡെപെന്ഡന്റ് സോഴ്സ് കളും ഉണ്ട് അത് ലളിതമായ ഒരു കാര്യമാണ് അത് നാം പിന്നെ പഠിക്കുന്നതാണ് അപ്പോൾ നാം ഇൻഡിപെൻഡന്റ് പിന്നെ ഡെപെന്ഡന്റ് സോഴ്സ് ഇത് രണ്ടും നോക്കുന്നതാണ് അതിനാൽ നമുക്ക് പറയാം പ്രധാനമായും രണ്ടു തരത്തിൽ ആണ് സോഴ്സ് ഉള്ളത് ഇൻഡിപെൻഡന്റ് സോഴ്സ് പിന്നെ ഡെപെന്ഡന്റ് സോഴ്സ് ഈ ഇൻട്രൊഡക്ഷൻ ൽ നാം പരിഗണിക്കുന്നതാണ് ആദ്യം നമുക്ക് ഇൻഡിപെൻഡന്റ് സോഴ്സ് നോക്കാം പിന്നീട് രണ്ടും പഠിക്കാം അപ്പോൾ ഇൻഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് എന്നത് അടിസ്ഥാനപരമായി ഒരു 2 ടെർമിനൽ എലമെന്റ് ആണ് ഈ വോൾടേജ് സോഴ്സ് തന്നെ ഇതൊരു 2 ടെർമിനൽ എലമെന്റ് ആണ് സിംബൽ നാം പിന്നെ നോക്കുന്നതാണ് അതിനാൽ അത് ഈ 2 ടെർമിനലുകളുടെ ഇടയിൽ ഇത് ഒരു പ്രത്യേക വോൾടേജ് നിലനിർത്തുന്നു ഈ വോൾടേജ് എന്നത് ഈ രണ്ടു ടെര്മിനലുകളുടെ ഇടയിൽ ആണ് ഈ വോൾടേജ് പൂർണമായും ഇൻഡിപെൻഡന്റ് ആണ് അതിന്റെ അർഥം ഈ വോൾടേജ് എന്നത് മറ്റൊരു പോയിന്റ് ൽ ഉള്ള വോൾടേജുമായോ കറന്റുമായോ ബന്ധമില്ല ഫിസിക്കൽ സോഴ്സ് ആയ ജനറേറ്റർ ബാറ്ററി എന്നിവ ഇതിനു ഉദാഹരണങ്ങൾ ആണ് അതിന്റെ അർഥം ഒന്നുകിൽ ജനറേറ്റർ അല്ലെങ്കിൽ ബാറ്ററി എന്നിവ ഐഡിയൽ വോൾടേജ് സോഴ്സ് ആണെന്ന് പറയാം ഇനി നമുക്ക് ഈ സിംബൽ എന്തെന്ന് നോക്കാം ഇവിടെ ഒരു വൃത്തം ഉണ്ട് പിന്നെ ഇവിടെ ഇത് ac യിലും dc യിലും ബാധകമാണ് ഇത് ac എന്ന് പറയുന്നില്ല പക്ഷെ സമയത്തിനനുസരിച്ചു മാറുന്നു ഇത് അല്ലെങ്കിൽ ഏതു വേണമെങ്കിലും ആകാം ഇത് ഒരു സമയം dc ആണെന്ന് പറയാം ഇത് ഉയർന്ന വാല്യൂ ആക്കിയാൽ ഇത് തുടർച്ചയായ ലൈൻ ആണ് പിന്നെ ഇത് പിന്നെ ഇത് ഇത് യഥാർത്ഥത്തിൽ dc സോഴ്സ് ആണ് എന്നാൽ ഇത് സ്ഥിരമായും എന്നാൽ സമയ വ്യതിയാനമായും ഈ സിംബൽ അർത്ഥമാക്കാം ഈ സിംബൽ യഥാർത്ഥത്തിൽ ശരി തന്നെ ആണ് ഇത് യഥാർത്ഥ dc ആണെങ്കിലും ഇത് ശരിയാണ് ഇത് രണ്ടുമാണ് ഇൻഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് ന്റെ സിംബലുകൾ അത് പോലെ നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞു ഈ സിംബൽ dc സോഴ്സ് നു വേണ്ടിയാണെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഇത് ടൈം വേരിയിങ് വോൾടേജ് നും ഇതുപയോഗിക്കാം അതായതും dc യും ടൈം വേരിയിങ് രണ്ടിനും ഇതുപയോഗിക്കാം ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു ഇൻഡിപെൻഡന്റ് കറന്റ് സോഴ്സ് ഇതിനും രണ്ടു ടെർമിനലുകൾ ആണുള്ളത് അപ്പോൾ ഇത് ഒരു 2 ടെർമിനൽ എലമെന്റ് ആണ് അത് ഒരു നിശ്ചിത കറന്റ് നൽകുകയും ചെയ്യുന്നു ഇത് അതിന് കുറുകെ ഉള്ള വോൾടേജ് നു ഇൻഡിപെൻഡന്റ് ആണ് അപ്പോൾ ഈ കറന്റ് സോഴ്സ് എന്ത് തന്നെ ആണെങ്കിലും അത് ഈ വോൾട്ടേജി നു ഇൻഡിപെൻഡന്റ് ആണ് ഇതാണ് കറന്റ് സോഴ്സ് ന്റെ സിംബൽ ഈ സിംബൽ ആണെങ്കിലും നമുക്ക് ac ക്കും dc ക്കും ഉപയോഗിക്കാം അത് നാം പിന്നീട് കാണുന്നതാണ് അതിനാൽ നമുക്ക് പറയാം ഇൻഡിപെൻഡന്റ് സോഴ്സ് എന്നത് പവർ കൊടുക്കുക എന്നതിന് വേണ്ടി ആണ് അപ്പോൾ ഈ സിംബൽ എന്നത് ac ക്കും dc ക്കും വേണ്ടി ഉപയോഗിക്കാം ഉദാഹരണത്തിന് i 2 ആമ്പിയർ അപ്പോൾ i 2 ആമ്പിയർ ആണെങ്കിൽ അത് dc എന്ന് പറയാം ഇനി i 2 sin 100 pi t എന്നാണെങ്കിൽ അത് ac കറന്റ് സോഴ്സ് ആണ് ഈ സിംബൽ എന്നത് ac ക്കും dc ക്കും ഉപയോഗിക്കാം നാം ഇത് വിശദമായി പഠിക്കുന്നതാണ് ഇനി ഡിപെൻഡഡ് സോഴ്സ് ഈ ഡിപെൻഡഡ് സോഴ്സ് എന്നത് മിക്കപ്പോഴും ഡൈമൻ രൂപത്തിൽ ആയിരിക്കും ഉദാഹരണത്തിന് ഇത് ഇത് ഡിപെൻഡഡ് കറന്റ് സോഴ്സ് ഇവിടെ ഈ ആരോ മുകളിലേക്കാണ് കാണിച്ചിരിക്കുന്നത് ഇത് ഉദാഹരണത്തിന് മാത്രം പറയുന്നതാണ് പിന്നെ ഇത് ഡിപെൻഡഡ് വോൾടേജ് സോഴ്സ് ഇതിന്റെ അർഥം എന്നത് ഈ വോൾടേജ് എന്ത് തന്നെ ആയാലും ഈ സർക്യൂട് ന്റെ മറ്റൊരു ഭാഗത്തുള്ള കറന്റ് അല്ലെങ്കിൽ വോൾടേജ് നെ ആശ്രയിച്ചിരിക്കുന്നു അതുപോലെ ഈ കറന്റ് എന്നത് മറ്റേതെങ്കിലും ഭാഗത്തുള്ള വോൾടേജ് അല്ലെങ്കിൽ കറന്റ് നെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഇത് ഡിപെൻഡഡ് സോഴ്സ് അതിനാൽ തന്നെ ഇത് ഐഡിയൽ അല്ല പിന്നെ സ്ഥിരവും അല്ല അപ്പോൾ സിംബൽ എന്നത് ഡൈമൻ രൂപത്തിൽ ആയിരിക്കും ഇത് ഇത് ഡിപെൻഡഡ് കറന്റ് സോഴ്സ് പിന്നെ ഇത് ഡിപെൻഡഡ് വോൾടേജ് സോഴ്സ് ഇവിടെ പല കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു എവിടെയെല്ലാം ഇത് പറയുന്നോ അർഥം ഒന്ന് തന്നെയാണ് ഡിപെൻഡഡ് സോഴ്സ് അല്ലെങ്കിൽ കോൺട്രോൾഡ് സോഴ്സ് എന്നത് ഇൻഡിപെൻഡന്റ് സോഴ്സ് നു തുല്യമാണ് ഒരു കാര്യത്തിൽ ഒഴികെ അതായതു ടെർമിനൽ വോൾടേജ് എന്നത് വോൾടേജ് അല്ലെങ്കിൽ കറന്റ് നെ ആശ്രയിച്ചിരിക്കുന്നു ഒരു ഉദാഹരണം നോക്കുക ഇതൊരു ഡിപെൻഡന്റ് സോഴ്സ് ആണ് ഇതിന്റെ വോൾടേജ് എന്നത് 2 v x ആണ് പൊതുവായി നമുക്ക് ഇതിനെ a v x ഈ a എന്നത് 1 2 3 4 ആകാം ഇത് 1 നു താഴെയും ആകാം അതിനാൽ ഇത് നമുക്ക് 2 v x എടുക്കാം ഈ v x എന്നത് ഏതോ ഒരു ബ്രാഞ്ച് നു കുറുകെ ഉള്ള വോൾടേജ് ആണ് എന്നാൽ സിംബോളിക്കൽ ആയി ഇതിനെ v 0 എന്നത് 2 vx എന്ന് എഴുതാം എപ്പോൾ vx എപ്പോൾ മാറുമോ അപ്പോൾ ഒക്കെ v0 യും മാറുന്നതാണ് അതിനാൽ ഇതിനെ വോൾടേജ് കോൺട്രോൾഡ് വോൾടേജ് സോഴ്സ് എന്ന് പറയാം എന്തെന്നാൽ ഈ v0 എന്നത് മറ്റേതോ ഭാഗത്തെ വോൾടേജ് നെ ആശ്രയിച്ചിരിക്കും അത് Vx എന്ന് പറയാം ഈ സമയം ഇതാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഇതും v 0 ആണ് അത് നമുക്കു 3 i x എന്നെഴുതാം ഇതിനെ ചിലപ്പോൾ ഗൈൻ പാരാമീറ്റർ 3 അത് വേണമെങ്കിൽ 4 5 2 1 2 അത് കാര്യമാക്കേണ്ട വിശദീകരണത്തിനായി ഇത് 3 i x ഈ ix എന്നത് മറ്റേതോ ബ്രാഞ്ചിലെ കറന്റ് ആണ് ഈ ix നു മാറ്റം സംഭവിക്കുമ്പോൾ Vo യും മാറുന്നു അതിനാൽ ഇതിനെ കറന്റ് കോൺട്രോൾഡ് വോൾടേജ് സോഴ്സ് എന്തെന്നാൽ ഈ vo എന്നത് കറന്റ് ന്റെ ഫങ്ക്ഷൻ ആണ് അതിനാൽ ആണ് ഇതിനെ കറന്റ് കോൺട്രോൾഡ് വോൾടേജ് സോഴ്സ് എന്ന് പറയുന്നത് CCVS എന്നതാണ് കറന്റ് കോൺട്രോൾഡ് വോൾടേജ് സോഴ്സ് ന്റെ ഷോർട് ഫോം പിന്നെ VCVS എന്നതാണ് വോൾടേജ് കോൺട്രോൾഡ് വോൾടേജ് സോഴ്സ് ന്റെ ചുരുക്കിയ രൂപം അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഡിപെൻഡഡ് സോഴ്സ് ആണ് അതായത് r v r v 0 പിന്നെ v 0 2 v x അല്ലെങ്കിൽ v 0 3 i x ഇവയെ ഡിപെൻഡഡ് സോഴ്സ് എന്നാണ് വിളിക്കുക എന്തുകൊണ്ടെന്നാൽ ഈ v0 എന്നത് ഒന്നുകിൽ മറ്റൊരു വോൾടേജ് ന്റെ ഫങ്ക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ കറന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് വോൾടേജ് ന്റെ ഫങ്ക്ഷൻ ആകുമ്പോൾ അതിനെ വോൾടേജ് കോൺട്രോൾഡ് വോൾടേജ് സോഴ്സ് എന്നും കറന്റ് ന്റെ ഫങ്ക്ഷൻ ആകുമ്പോൾ കറന്റ് കോൺട്രോൾഡ് വോൾടേജ് സോഴ്സ് എന്നും പറയും ഞാൻ ഇവിടെ പറഞ്ഞത് എല്ലാം തന്നെ ഈ ഫിഗർ 1 6 ൽ എഴുതിയിട്ടുണ്ട് 0 ab അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഇവിടെ എഴുതിയിരിക്കുന്നു ഇനി ഇതിനെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നതല്ല എന്തെന്നാൽ എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ പിന്നെ ഒരു കാര്യം പറയേണ്ടത് ഈ കേസിൽ കറന്റ് നെ ആശ്രയിച്ചായതിനാൽ ഈ 3 എന്ന പാരാമീറ്റർ നെ നാം ഗൈൻ പരാമീറ്റർ എന്ന് പറയുന്നു ഇനി അടുത്തതായി നോക്കേണ്ടതാണ് വോൾടേജ് സോഴ്സ് ഇനി ഒരു ഡിപെൻഡന്റ് കറന്റ് സോഴ്സ് ലൂടെ ഒഴുകുന്ന കറന്റ് നിർണയിക്കുന്നത് ഈ സർക്യൂട് ലെ വേറൊരു ഭാഗത്തുള്ള വോൾടേജ് അല്ലെങ്കിൽ കറന്റ് ആയിരിക്കും ഒരു ഉദാഹരണം നോക്കുക ഇത് ഒരു ഉദാഹരണത്തിനായാണ് അതായതു കറന്റ് കൺട്രോൾഡ് കറന്റ് സോഴ്സ് അതിനാൽ ഇതൊരു ഡിപെൻഡന്റ് കറന്റ് സോഴ്സ് ആണ് അത് നമുക്ക് i 0 2 i x എന്നെഴുതാം ഇതിൽ ഈ 2 എന്നത് എനിക്ക് 3 4 അങ്ങനെ എന്തുവേണമെങ്കിലും ആകാം അത് 1 ൽ താഴെ വേണമെങ്കിലും ആകാം ഒരു വിശദീകരണത്തിനായി വേണമെങ്കിൽ നമുക്ക് 2 i x എന്ന് എടുക്കാം അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു കറന്റ് കൺട്രോൾഡ് കറന്റ് സോഴ്സ് ആണ് എന്തെന്നാൽ ഇവിടെ i 0 എന്നത് ix എന്ന കറന്റ് ന്റെ ഫങ്ക്ഷൻ ആണ് ഈ ix എന്നത് മറ്റൊരു എലെമെന്റിൽ കൂടെ ഒഴുകുന്ന കറന്റ് ആകാം അതായതു മറ്റൊരു ബ്രാഞ്ച് ലെ കറന്റ് യഥാർത്ഥത്തിൽ ഇത് i 0 2 i x ആണ് അതിന്റെ അർഥം കറന്റ് കൺട്രോൾഡ് കറന്റ് സോഴ്സ് അതായതു ഇത് ix എന്ന കറന്റ് ന്റെ ഫങ്ക്ഷൻ ആണ് അപ്പോൾ ഇത് കറന്റ് കൺട്രോൾഡ് കറന്റ് സോഴ്സ് CCCS ആണ് അതുപോലെ ഈ കറന്റ് i 0 എന്നത് 3 v x ആണെങ്കിൽ അത് വോൾടേജ് കൺട്രോൾഡ് കറന്റ് സോഴ്സ് ആണ് എന്തെന്നാൽ ഈ കറന്റ് i 0 എന്നത് വോൾടേജ് vx ന്റെ ഫങ്ക്ഷൻ ആണ് ഈ vx എന്നത് മറ്റൊരു ബ്രാഞ്ച് x ലെ വോൾടേജ് ആകാം അപ്പോൾ i 0 എന്നത് 3 vx ആണ് ഈ 3 എന്നത് 1 2 3 4 അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം അതിനെ ഗൈൻ പരാമീറ്റർ gain parameter അപ്പോൾ i 0 3 v h ആണ് ഇതിനെയാണ് വോൾടേജ് കൺട്രോൾഡ് കറന്റ് സോഴ്സ് എന്ന് വിളിക്കുക ഇനി മറ്റൊരു കാര്യം ഇത് നാം കാണിക്കുമ്പോൾ ഇത് പിന്നെ ഇത് ആണ് അതുപോലെ കറന്റ് സോഴ്സ് കാണിക്കുമ്പോൾ ഈ ആരോ മുകളിലേക്കാണ് അതിന്റെ അർഥം ഈ ടെർമിനൽ ൽ നിന്നും കറന്റ് പുറത്തേക്ക് ഒഴുകുകയാണ് അപ്പോൾ മുകളിലേക്ക് കാണിച്ചിരിക്കുന്ന ഈ ആരോയുടെ അർഥം എന്നത് കറന്റ് പുറത്തേക്കാണ് ഒഴുകുന്നത് എന്നതാണ് ഇത് ഇങ്ങനെയാണെങ്കിൽ അർത്ഥമാക്കുന്നത് ഒരു നിമിഷം ശ്രദ്ധിക്കുക ഇത് ഈ കറന്റ് നെ ദിശയാണ് അത് ഇങ്ങനെ മുകളിലേക്കാണ് അതിനാൽ കറന്റ് ഇങ്ങനെ ആണ് ഒഴുകുന്നത് അപ്പോൾ ഈ ഡയറക്ഷൻ താഴേക്കാണെങ്കിൽ സ്വാഭാവികമായും കറന്റും തിരിയുന്നതാണ് ഇപ്പോൾ ഇത് മുകളിലേക്കാണ് ഇതിനെയാണ് നാം കറന്റ് സോഴ്സ് എന്ന് വിളിക്കുക ഇപ്പോൾ നമു കണ്ടു കഴിഞ്ഞതാണ് ഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് പിന്നെ ഡിപെൻഡന്റ് കറന്റ് സോഴ്സ് ഇത് രണ്ടും കറന്റ് നെയോ വോൾടേജ് നെയോ ആശ്രയിച്ചിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ നന്നായി തന്നെ വിശദീകരിച്ചിരിക്കുന്നു

അതിന്റെ അർഥം കൺട്രോൾഡ് വോൾടേജ് സോഴ്സ് ഉം പിന്നെ കൺട്രോൾഡ് കറന്റ് സോഴ്സ് ഉം പ്രയോഗികമായ സർക്യൂട് കൾ ഉദാഹരണത്തിന് ട്രാൻസിസ്റ്റർ നിർമിക്കുവാൻ വളരെ സഹായകമാണ് പിന്നെ ട്രാൻസ്ഫോർമർ പിന്നെ എലെക്ട്രിക്കൽ മെഷീൻ പിന്നെ ഇലെക്ട്രിക്കൽ ആംപ്ലിഫൈർ എന്നിങ്ങനെ ഇവിടെ 4 തരം സോഴ്സുകൾ ആണ് കാണിച്ചത് വോൾടേജ് കൺട്രോൾഡ് വോൾടേജ് സോഴ്സ് അതിനെ നാം VCVS എന്ന് വിളിച്ചു പിന്നെ കറന്റ് കൺട്രോൾഡ് വോൾടേജ് സോഴ്സ് അതിനെ CCVS എന്നും അതിനു ശേഷം കറന്റ് കൺട്രോൾഡ് കറന്റ് സോഴ്സ് അവസാനം വോൾടേജ് കൺട്രോൾഡ് കറന്റ് സോഴ്സ് അത് VCCS അങ്ങനെ 4 എണ്ണം ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം ഈ സർക്യൂട് എന്തെന്ന് നിർണയിക്കുക ഇതിനെ നമുക്ക് ഉദാഹരണം 11 ആയി എടുക്കാം ഈ ഫിഗറിലെ എലമെന്റ് പവർ സ്വീകരിച്ചതോ അതോ കൊടുത്തോ എന്നും പിന്നെ അത് എത്രയാണെന്നും നിർണയിക്കുക കുറച്ചു കാര്യങ്ങൾ കൂടെ ഇതിൽ നോക്കുക ഇവിടെ കറന്റ് എന്നത് I 6 ആമ്പിയർ ആണ് പിന്നെ വോൾടേജ് എന്നത് 20 വോൾട് ആണ് അത് p1 ഇവിടെ മറ്റൊരു എലമെന്റ് p2 പിന്നെ ഇത് p3 ഇത് p4 ഇത് മറ്റൊരു ഡിപെൻഡന്റ് കറന്റ് സോഴ്സ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പവർ സ്വീകരിച്ചത് അല്ലെങ്കിൽ കൊടുത്തത് പവർ സ്വീകരിച്ചത് പവർ കൊടുത്തതിനു തുല്യമായിരിക്കണം അത് അങ്ങനെയല്ല എങ്കിൽ നമ്മുടെ കണക്കു കൂട്ടലിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ഇത് ഒരു പ്രത്യേക എലെമെന്റ് ആണ് പൊളാരിറ്റി അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇത് വോൾടേജ് സോഴ്സ് ന്റെ പൊളാരിറ്റി പിന്നെ ഇത് കറന്റ് സോഴ്സ് ഇതിന്റെ വാല്യൂ എന്നത് 1 6 I ആണ് അതായതു I 6 ആമ്പിയർ ആണെങ്കിൽ ഇത് ⅙ 6 അതായത് 1 ആമ്പിയർ ആയി മാറുന്നു മുമ്പ് ചെയ്ത ചർച്ചയിൽ നമ്മൾ ഒരു കാര്യം കണ്ടു കറന്റ് ഈ വോൾടേജ് സോഴ്സ് ന്റെ പോസിറ്റീവ് ടെർമിനൽ നിന്നും പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ പവർ എന്നത് കൊടുത്തിരിക്കുന്നു അതായതു സൈൻ നെഗറ്റീവ് ആണ് ഈ കേസ് നോക്കിയാൽ കറന്റ് I1 എന്നത് സോഴ്സ് ൽ നിന്നും പുറത്തേക്കാണ് വരുന്നത് അതിന്റെ അർഥം ഈ പോസിറ്റീവ് ടെർമിനൽ നിന്നും പുറത്തേക്കാണ് വരുന്നത് അതിന്റെ അർഥം പവർ എന്നത് നെഗറ്റീവ് ആണ് അത് 20 6 അതായത് 120 വാട്ട് ആണ് പവർ എന്നത് കൊടുക്കപ്പെടുന്നു അതിന്റെ അർഥം ഇവിടെ നോക്കുക p1 20 6 അതായതു 120 വാട്ട് ആണ് ഇതാണ് നൽകപ്പെട്ട പവർ കറന്റ് ഈ ടെർമിനൽ നിന്നും പുറത്തേക്കാണെങ്കിൽ കറന്റ് എന്നത് I ആയിരിക്കും ഇത് മുമ്പ് പറഞ്ഞ കാര്യം ആണ് അതായതു പവർ കൊടുത്തു ഇനി കറന്റ് എന്നത് I 6 ആയിരിക്കും ഈ സർക്യൂട് ലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനാൽ ഈ എലമെന്റ് പവർ സ്വീകരിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഈ സ്വീകരിക്കുന്ന പവർ എന്നത് 12 6 ആണ് p 2 12 വോൾട് I 6 ആമ്പിയർ അതിനാൽ ഇത് 12 6 72 വാട്ട് ആയിരിക്കും ഇവിടെ നാം കണ്ടു p 2 72 അതായതു സ്വീകരിച്ച പവർ എന്നത് p 2 72 വാട്ട് ആണ് ഇനിയും ഈ സർക്യൂട് ലേക്ക് തിരിച്ചു വരിക ഈ ടെർമിനൽ 7 ആമ്പിയർ കറന്റ് പ്രവേശിക്കുന്നു അതിൽ ഇത് പോസിറ്റീവ് ആണ് അതിന്റെ അർഥം കറന്റ് പ്രവേശിക്കുന്നത് പോസിറ്റീവ് ടെർമിനൽ ലൂടെ ആണ് അതായതു പവർ സ്വീകരിക്കുകയാണ് ഇവിടെ പിന്നെ വോൾടേജ് എന്നത് 8വോൾട് അപ്പോൾ p 3 8 7 അത് 56 വാട്ട് ആണ് ഇത് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇവിടെ വരിക ഇത് കറന്റ് സോഴ്സ് ആണ് ഇനി ചോദ്യം എന്നത് ഈ കറന്റ് സോഴ്സ് നാം ഇവിടെ നിർമിക്കുകയാണ് അതിനാൽ I 6 ആമ്പിയർ ആണ് അപ്പോൾ ഇത് ⅙ 6 അതായത് 1 ആമ്പിയർ ആണ് ഇനി ചോദ്യം ഇവിടെ പവർ അബ്സോർബ് ആണോ അതോ ഡെലിവെർഡ് ആണോ എന്നതാണ് ഇനി ഈ ടെർമിനൽ നോക്കുക ഇത് പിന്നെ ഇത് ഇവിടെ ഈ വയർ മാത്രമാണുള്ളത് അതിന്റെ അർഥം എനിക്ക് ഇവിടെ എന്നും ഇവിടെ എന്നും അടയാളപ്പെടുത്താ൦ അതിനാൽ ഇത് പിന്നെ ഇത് കറന്റ് മുകളിലേക്ക് എന്നതിന്റെ അർഥം കറന്റ് അങ്ങനെയാണ് പോകുന്നത് അതായത് കറന്റ് ഈ ടെർമിനൽ നിന്നും പുറത്തേക്കാണ് പോകുന്നത് അതായത് പവർ കൊടുക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴൊക്കെ കറന്റ് ൽ നിന്നും പുറത്തേക്കു പോകുമോ അപ്പോഴൊക്കെ പവർ കൊടുക്കപ്പെടുന്നു അതിന്റെ അർഥം സൈൻ നെഗറ്റീവ് ആണ് എന്നാൽ കറന്റ് ഇവിടെ 1 ആമ്പിയർ ആണ് അപ്പോൾ ഇവിടെ വോൾടേജ് എത്രയാണ് അത് 8 ആണ് കറന്റ് ഇവിടെ 1 ആണ് എന്തെന്നാൽ കറന്റ് പുറത്തേക്കാണ് അപ്പോൾ പവർ എന്നത് 8 വാട്ട് സപ്ലൈ ആണ് ഇനി ഈ വോൾടേജ് ഇവിടെ എന്ന് അനുമാനിക്കുക ഈ പോയിന്റ് b ആണെങ്കിൽ ഇതും b ആയിരിക്കും ഈ വോൾടേജ് നാം ഇത് പോലെ ആക്കിയാൽ v a b എന്നത് 8 വോൾട് ആണ് ഇവിടെയും അത് 8 വോൾട് ആണ് എന്നാൽ കറന്റ് I എന്നത് 6 ആമ്പിയർ ആണ് അതായതു I 6 ആമ്പിയർ അത് ഏതു പോയിന്റ് ആണെന്ന് നോക്കുക അപ്പോൾ ഇത് 1 6 6 1ആമ്പിയർ ആയിരിക്കും ഞാൻ പറഞ്ഞു ഇത് മുകളിലേക്കാണ് അതിനാൽ കറന്റ് ഒഴുകുക ഇതിലെ ആയിരിക്കും ഇത് പിന്നെ ഇത് അതിനാൽ കറന്റ് പോസിറ്റീവ് ടെർമിനൽ വഴി ആണ് പുറത്തേക്കു പോകുക അത് കൊണ്ട് പവർ കൊടുക്കപ്പെടുകയാണ് അപ്പോൾ ഇത് 8 1 അതായതു 8 വാട്ട് ആയിരിക്കും